അപ്പോൾ ഇതോടെ സിംഗിൾ ഫേസ് സർക്യൂട്ട് വരാം ത്രീ ഫേസ് സർക്യൂട്ടിലെ പവർ ഉൽപാദനത്തെ കുറിച്ച് ഒന്നും ഇവിടെ നമ്മൾ സംസാരിക്കില്ല ത്രീ ഫേസ് സർക്യൂട്ടിന്റെ വിശകലനം പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ത്രീ ഫേസ് ജനറേറ്റർ കറങ്ങുന്നുണ്ട് ഈ കാന്തത്തിന് ചുറ്റും റോട്ടർ ആയതിനാൽ ഇതിനെ സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നു ഇനി ചോദ്യമെന്തെന്നാൽ ഇത് ഒരു കണ്ടക്റ്റർ a ആണെന്ന് വെക്കുക നമ്മൾ ഒരു പേജ് എടുക്കുകയാണെങ്കിൽ കറണ്ട് ഇതിലേക്ക് പ്രവേശിക്കുകയാണ് അത് പോലെ a ൽ അത് വിട്ട് പോവുകയുമാണ് സമാനമായി b യും b ഉം c യും cഉം ഇത് പോലെയാണ് ഇനി ഈ വൈൻഡിങ്ങുകളെല്ലാം 120o അകൽച്ചയിലാണ് അപ്പോൾ ആകെ 360o ആണ് അപ്പോൾ a a ഉം b b ഉം c c ഉം അടിസ്ഥാനപരമായി പരസ്പരം 120o വിട്ടാണ് അപ്പോൾ ഇത് ഒരു റോട്ടറാണ് ഇതിനു ചുറ്റും സ്റ്റേറ്റർ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാറ്റിക് ഭാഗം ഉണ്ട് ഈ സ്റ്റാറ്റിക് ഭാഗത്ത് വൈൻഡിംഗുകൾ 120o അകൽച്ചയിലാണ് പക്ഷേ കാന്തം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലക്സ് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാന്തം ഉണ്ട് അത് കറങ്ങുന്നുണ്ടെന്ന് കരുതുക അതിനു ചുറ്റും സ്റ്റേറ്റർ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാറ്റിക് ഭാഗം ഉണ്ട് ഇതിനകത് a a b b c c വൈൻഡിങ്ങുകൾ ഉണ്ട് ഈ വൈൻഡിംഗുകൾ 120o അകൽച്ചയിലാണ് ഇത് കറങ്ങി കൊണ്ടിരിക്കുമ്പോൾ ഫ്ലക്സ് ചെയ്യപ്പെടും ഇതിനെ നമ്മൾ a ൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടെർമിനൽ a ആയിട്ടാണ് എടുക്കുന്നത് ഇതാണ് a ഇവിടെ ഇത് പേജിൽ നിന്ന് വിട്ട് പോവുകയാണ് a യിൽ ഇത് പേജിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ a ൽ ഇത് പേജിൽ നിന്ന് വിട്ട് പോവുകയാണ് സമാനമായി b ലും ഇത് പോലെ നോക്കുകയാണെങ്കിൽ ടെർമിനൽ എടുത്തിരിക്കുന്നത് b ആണ് അത് പോലെ c ന് ഇത് c ആണ് എടുത്തിട്ടുള്ളത് ഇനി a യും അത് പോലെ b യും c യും നോക്കുകയാണെങ്കിൽ ഇവ മൂന്നും ഒരുമിച്ച് കൂടി ഈ ന്യൂമറിക്കൽ n എന്നാണ് വിളിക്കുന്നത് ഇവയാണ് മൂന്ന് ടെർമിനലുകൾ a b c അപ്പോൾ ഇത് ഒരു ത്രീ ഫേസ് ജനറേറ്ററാണ് ചിലപ്പോൾ ഇതിനെ ആൾട്ടർനേറ്റർ എന്നും വിളിക്കുന്നു ഇത് ഒരു റോട്ടറാണ് ഇത് ഒരു കാന്തമാണ് ഇത് കറങ്ങുന്നുണ്ടെന്ന് കരുതുക ഇവിടെ 120 o അകൽച്ചയിൽ വൈൻഡിങ്ങുകൾ ഉണ്ട് കാന്തം കറങ്ങുന്നത് കാരണം ഇവിടെ ഫ്ളക്സ് ഉണ്ടാകുന്നു അത് വഴി ഇതിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇനി ഇത് 120o അകൽച്ചയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം ഇവിടെ വോൾട്ടേജ് Van Vbn Vcn എന്നിവ എടുത്തിട്ടുണ്ട് അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് a യിൽ നിന്ന് n ലേക്കും മറ്റൊന്ന് b യിൽ നിന്ന് n ലേക്കും മറ്റൊന്ന് ഇത് പോലെ c യിൽ നിന്ന് n ലേക്കും ആയിരിക്കും അതിനാൽ Va യിൽ നിന്ന് n ലേക്കും V b യിൽ നിന്ന് n ലേക്കും V c യിൽ നിന്ന് n ലേക്കും ഇവിടെ ഈ a n b n c n എന്നിവയെ നമ്മൾ ഫേസ് വോൾട്ടേജ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ Van ആന്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് നീങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് നീങ്ങുന്നത് ഇനി Vbn നോക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ 120o അകൽച്ചയുണ്ട് പിന്നെ Vcn തീർച്ചയായും ഇങ്ങനെയായിരിക്കും വരുക അപ്പോൾ അതിനർത്ഥം Van Vbn നെ 120o മുന്നിട്ട് നിൽക്കുന്നു സമാനമായി Vbn Vcn നെ 120o മുന്നിട്ട് നിൽക്കുന്നു മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ Vbn Van ൽ നിന്ന് 120o പിന്നിട്ട് നിൽക്കുന്നു അത്പോലെ Vcn Vbn ൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നത് 120o ക്കാണ് കൂടാതെ Vcn Van ൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നത് 240o ആണ് കാരണം ഈ Van Vbn നേക്കാൾ വേഗത്തിൽ പീക്കിലെത്തുന്നുണ്ട് അതിനാൽ Van Vbn നെ മുന്നിട്ട് നിൽക്കുന്നു Vbn Vcn നെ മുന്നിട്ട് നിൽക്കുന്നു ആംഗിൾ 120o ആണ് a b c എന്നിവയും ഇതേ പോലെ 120o അകൽച്ചയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ Van ആണ് റഫറൻസ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു അത് പോലെ ഇത് ω t യും ഇത് വോൾട്ടെജും ആണ് അതിനാൽ ഇത് Van Vbn Vcn എന്നിവയുടെ സൈനുസോയിടൽ അവതരണമാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ a n എടുക്കുമ്പോൾ ക്ഷണികമായ പൊളാരിറ്റിയിൽ അതിന്റെ a ടെർമിനൽ പോസിറ്റീവും n ടെർമിനൽ നെഗറ്റീവും ആയിരിക്കും ഇവിടെ ഈ കേസിലും ഇവ പരസ്പരം 120o അകലെയാണ് ഈ a b c യെ നമ്മൾ ഫേസ് സീക്വൻസ് phase sequence എന്നാണ് വിളിക്കുന്നത് നമുക്ക് a c b എന്നായിട്ടാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഫേസ് സീക്വൻസ് a b c എന്നതാണ് അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ന്യൂട്രൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ Van എഴുതുമ്പോൾ അതിനർത്ഥം ഈ വോൾട്ടേജ് Van ആണെന്നാണ് ഈ ആരോ ചിഹ്നം കാണിക്കുന്നത് ഇത് ആണെന്നും ഇത് ആണെന്നുമാണ് സമാനമായി Vbn എടുക്കുമ്പോൾ ഈ ആരോ ഉള്ളത് Vbn ഉം ഇത് ഉം ആണ് ഇതേ പോലെ തന്നെയാണ് Vcn ഉം ഈ ആരോ കാണിക്കുന്നത് ഇത് പോസിറ്റീവാണെന്നും ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അത് നെഗറ്റീവുമാണ് ഇതാണ് ഫിഗർ 3 ഇത് വോൾട്ടേജ് Van ഇത് വോൾട്ടേജ് Vbn സമാനമായി ഇത് Vcn ആണ് അതിനർത്ഥം അടിസ്ഥാനപരമായി നമ്മുടെ അടുത്ത് ഒരു കാന്തമുണ്ടെങ്കിൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും സ്റ്റേറ്റർ എന്ന ഒരു സ്റ്റാറ്റിക് ഭാഗം ഉണ്ടെങ്കിൽ അതിലെ വൈൻഡിങ്ങുകൾ 120o അകലെയായിരിക്കും ഈ കാന്തം കറങ്ങുന്നതിനാൽ 120o അകലെയുള്ള ഈ മൂന്ന് കോയിലുകളിലും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഇതിൽ ഉദാഹരണത്തിന് Vn ൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വോൾട്ടേജ് റഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ Vbn Van ൽ നിന്ന് 120o പിന്നിട്ട് നിൽക്കും അത് പോലെ Vcn Vbn ൽ നിന്ന് 120o പിന്നിട്ട് നിൽക്കും അല്ലെങ്കിൽ Vcn Van ൽ നിന്ന് 240o പിന്നിട്ട് നിൽക്കും ഇതാണ് ഇതിന്റെ തത്വം അതെ പോലെ ഇതാണ് സ്റ്റാർ ആണ് പക്ഷെ ഇത് എസി ആയതിനാൽ ഇവിടെ ഒരു ന്യൂട്രൽ ഉണ്ടാകും അതവിടെ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ഇവിടെ ഈ n നെ ന്യൂട്രൽ ഭാഗം ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഒരു സ്റ്റാർ കണക്റ്റഡ് സ്രോതസ്സാണ് പക്ഷെ ഇത് ഒരു ∆ ആണെങ്കിൽ അവിടെ ന്യൂട്രൽ ഉണ്ടാവുകയില്ല ഇതിലെ സ്രോതസ്സ് ∆ കണക്റ്റഡ് ആണെങ്കിൽ ഇതിൽ ന്യൂട്രൽ ഉണ്ടാവുകയില്ല ഇവിടെ ഈ കേസിൽ Vab എന്നതിൽ a യുടെ പൊളാരിറ്റി അനുസരിച്ച് a പോസിറ്റീവാണ് ഇതേ പോലെ b ടെർമിനൽ നെഗറ്റീവാണ് അപ്പോൾ Vab യിൽ ഇത് പോസിറ്റീവാണെങ്കിൽ ഇത് നെഗറ്റീവായിരിക്കും അതെ പോലെ Vab യിൽ ആരോ ചിഹ്നം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണെന്നർത്ഥം ആരോ ഇല്ലെങ്കിൽ നെഗറ്റീവാണ് ഇതേ പോലെ Vbc നോക്കുകയാണെങ്കിൽ ഇതിൽ b പോസിറ്റീവായിരിക്കണം ഇവിടെ ഞാൻ Vbc എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉം ഇത് വുമാണ് ഇതാണ് ഇതിന്റെ ഇൻസ്റ്റന്റീനിയസ് പൊളാരിറ്റി ഇവിടെ ഈ Vab നെഗറ്റീവും ഇവിടെ ഈ Vbc പോസിറ്റീവുമാണ് ഇതിൽ ആശയകുഴപ്പം ഉണ്ടാവാൻ പാടില്ല ഇനി Vca നോക്കുകയാണെങ്കിൽ ഇതാണ് c ഇത് പോസിറ്റീവാണ് മറ്റേ വശം നെഗറ്റീവുമാണ് അപ്പോൾ നമ്മൾ Vab എന്ന് പറയുമ്പോൾ അതിൽ a പോസിറ്റീവും b നെഗറ്റീവുമായിരിക്കും Vbc എന്നാൽ b പോസിറ്റീവും അതായത് ആദ്യത്തേത് പോസിറ്റീവും രണ്ടാമത്തേത് നെഗറ്റീവുമായിരിക്കും ഇതിനെ നമ്മൾ സ്റ്റാർ കണക്റ്റഡ് അല്ലെങ്കിൽ ∆ കണക്റ്റഡ് സ്രോതസ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് ഫിഗർ 4 ആണ് ഇനി Van എന്നത് ലൈൻ a ക്കും ന്യൂട്രൽ ലൈൻ n നും ഇടയിലുള്ള വോൾട്ടേജാണ് അതേ പോലെ Vbn എന്നത് ലൈൻ b ക്കും ന്യൂട്രൽ ലൈൻ n നും ഇടയിലുള്ള വോൾട്ടേജാണ് കൂടാതെ Vcn ലൈൻ c ക്കും ന്യൂട്രൽ ലൈൻ n നും ഇടയിലുള്ള വോൾട്ടേജാണ് അതിനാൽ Van Vbn Vcn എന്നിവയെ ഫേസ് വോൾട്ടേജുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ലൈനിൽ നിന്ന് ന്യൂട്രലിലേക്കാണെങ്കിൽ എങ്കിലത് ഫേസ് വോൾട്ടേജാണ് നിങ്ങൾക്ക് എത്ര വോൾട്ടേജാണ് കിട്ടുന്നതെങ്കിലും അവ ലൈനിൽ നിന്ന് ന്യൂട്രലിലേക്കാണെങ്കിൽ എങ്കിലത് ഫേസ് വോൾട്ടേജാണ് അതിനാൽ Van Vbn Vcn എന്നിവ ഫേസ് വോൾട്ടേജുകളാണ് വോൾട്ടേജ് സ്രോതസ്സുകൾക്ക് ഒരേ ആംപ്ലിറ്റിയൂടും ഉണ്ടെങ്കിൽ അവ പരസ്പരം 120 ഡിഗ്രി ഫേസിലാണെങ്കിൽ വോൾട്ടേജുകൾ സന്തുലിതമായിരിക്കും അതിനർത്ഥം ഈ വോൾട്ടേജ് സ്രോതസ്സുകൾക്ക് ഒരേ ആംപ്ലിറ്റിയൂടും ഫ്രീക്വൻസിയും ആയിരിക്കും അവ 120o ആയിരിക്കുമ്പോൾ ഉണ്ടാവുക അതായത് അവ തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് 120o ആയിരിക്കും ആ സമയം ഉണ്ടാവുക അതേ പോലെ വോൾട്ടേജ് സന്തുലിതവുമായിരിക്കും ഇനി അങ്ങനെയല്ലെങ്കിൽ അവ അസന്തുലിതമായിരിക്കും പക്ഷെ നമ്മൾ ഈ സ്രോതസ്സിന് സന്തുലിതമായത് മാത്രമേ പടിക്കുന്നോള്ളൂ ഇത് സൂചിപ്പിക്കുന്നത് Van Vbn Vcn 0 എന്നാണ് ഇതൊരു ഫേസർ അളവാണ് ഇത് എന്തുകൊണ്ടാണ് 0 കിട്ടിയതെന്ന് ഞാൻ കാണിച്ച് തരും ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 ലഭിക്കും അതിനാൽ Van Vbn Vcn 0 എന്നതാണ് സമവാക്യം അതിനർത്ഥം സന്തുലിതമായ വോൾട്ടേജിന് |Van| |Vbn| |Vcn| ഞാൻ മോഡ് ചേർക്കുമ്പോൾ അതിന്റെ അളവാണ് സൂചിപ്പിക്കുന്നത് ഇനി സമാനമായി ഫേസർ ഡയഗ്രം ഇതാണ് ഫേസ് സീക്വൻസ് a b c കാരണം b a യിൽ നിന്ന് ലാഗ് ചെയ്യുന്നു c b യിൽ നിന്ന് ലാഗ് ചെയ്യുന്നു അതിനാൽ ഫേസ് സീക്വൻസ് a b c ആണ് അപ്പോൾ നമ്മൾ Van Vp ആംഗിൾ 0o എന്നെഴുതുന്നു ഇതാണ് റഫറൻസ് Vp എന്നത് ഫേസ് വോൾട്ടേജാണ് അതിന്റെ ആംഗിൾ 0o ആണ് ഇത് Van ആണ് യഥാർത്ഥത്തിൽ ഈ എല്ലാ ഫേസുകളും തുല്യമാണ് ഇത് Vp എന്ന് കൂടിയാണ് ഇതിനെ ഫേസ് വോൾട്ടേജ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ കേസിൽ Van Vp ആംഗിൾ 0o ആണ് Vbn Van ൽ നിന്ന് 120o ലാഗ് ചെയ്യുന്നു അതിനാൽ ഇതേ പോലെ Vbn Vp ആംഗിൾ 120o ആണ് ഇതിന്റെ അളവുകളെല്ലാം തുല്യമാണ് ഇനി Vcn എന്നത് നോക്കുകയാണെങ്കിൽ ഇതാണ് Vcn ഈ ആംഗിൾ 240o ആണ് അതിനാൽ Vcn Van ൽ നിന്ന് 240o ലാഗ് ചെയ്യുന്നു അതിനാൽ Vcn Vp ആംഗിൾ 240o Vp ആംഗിൾ 120o അതല്ലെങ്കിൽ ഈ Vcn 240o ലാഗ് ചെയ്യുന്നു അല്ലെങ്കിൽ Vcn Van നെ 120o ലാഗ് ചെയ്യുന്നു കാരണം Vcn 120o യും 120o യും സമാനമായി ഇതും Vp ആംഗിൾ 120o ആണ് ഇനി Vp ആംഗിൾ 240o യെ 1 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അപ്പോൾ × 1 ആംഗിൾ 360o ഇനി ഇവ രണ്ടും കൂട്ടുകയാണെങ്കിൽ ഇത് Vp ആംഗിൾ 120o ആയിരിക്കും അപ്പോൾ അടിസ്ഥാനപരമായി ഇത് ഇതിനെ 120o ലീഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ Vp 120 o ആണ് Vp എന്നത് ഫേസ് വോൾട്ടേജിന്റെ എഫക്ടീവ് അല്ലെങ്കിൽ ആർ എം എസ് മൂല്യമാണ് ഇവിടെ sin ω t അല്ലെങ്കിൽ cos ω t ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഫേസ് വോൾട്ടേജിന്റെ ആർ എം എസ് മൂല്യമാണ് അതിനാൽ Vp എന്നതാണ് ഫേസ് വോൾട്ടേജ് ഇതെല്ലം ആർ എം എസ് മൂല്യമാണ് ഇനി റോട്ടർ കറങ്ങുക ഇവിടെ ഈ കേസിൽ നമ്മൾ Van ഉം പിന്നെ c യും പിന്നെ b യുമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇത് a c b ഫേസ് സീക്വൻസാണ് ഇവിടെ റോട്ടർ കറങ്ങിയിരുന്നത് ആന്റി ക്ളോക്ക് വൈസ് ദിശയിലായിരുന്നെങ്കിൽ ഈ കേസിൽ റോട്ടർ കറങ്ങുന്നത് ക്ളോക്ക് വൈസ് ദിശയിലാണ് അതായത് ഈ ദിശയിലാണ് ω അപ്പോൾ ഇതിൽ a c b സീക്വൻസാണ് അപ്പോൾ Van Vp ആംഗിൾ 0o എന്ന് കിട്ടി അതേ പോലെ Vbn Vp ആംഗിൾ 120o സമാനമായി Vcn Vp ആംഗിൾ 120o ആണ് ഇത് a c b സീക്വൻസിനാണ് മുമ്പത്തേതു പോലെ തന്നെ ഒരു കാര്യം മാത്രമേ മാറിയിട്ടൊള്ളു ഇനി സമവാക്യം ൽ നിന്ന് Van Vbn Vcn Vp ആംഗിൾ 0o Vp ആംഗിൾ 120 o Vp ആംഗിൾ 120o ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ ഇത് 1 0 5 j 0 866 0 5 j 0 866 എന്നായിരിക്കും ഇത് 0 ആകും അതിനാൽ സ്രോതസ്സ് സന്തുലിതമാവാൻ Van Vbn Vcn 0 ആയിരിക്കണം ഇത് അസന്തുലിതമാണെങ്കിൽ അത് 0 ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം 0 എന്നതിനർത്ഥം ഇത് സന്തുലിതമാകുമെന്നല്ല കാരണം ഈ പാരാമീറ്ററുകൾ അത്തരമൊരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് 0 ആണെങ്കിൽ സന്തുലിതമായ വോൾട്ടേജ് സ്രോതസ്സ് Van Vbn Vcn 0 ആവുമെന്ന് അനുമാനിക്കുക ഇനി ഇത് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ലോഡിന് കാണും ഇത് Z1 Z2 Z3 എന്നിവയാണ് അത് പോലെ Y കണക്റ്റഡ് ലോഡാണ് ഇത് സന്തുലിതമായിരിക്കും ഫേസ് a b c തന്നിട്ടുണ്ട് ന്യൂട്രൽ ഡാഷ് ലൈൻ തന്നിട്ടുണ്ട് ഇതവിടെ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം ഈ ഫേസ് സന്തുലിതമായതിനാൽ ഇത് എപ്പോഴും പൂജ്യമായിരിക്കും ഇനി കറണ്ടിന്റെ കേസിൽ ഇത് വ്യത്യസ്തമാകും ഇത് a b c ആണ് ഇത് a ലൈൻ ആണ് ഈ ന്യൂട്രൽ അവിടെയുണ്ടാകാം ഉണ്ടാവാതിരിക്കാം അപ്പോൾ ഇത് Z1 ഉം Z2 ഉം Z 3 യുമാണ് ഇത് ഫിഗർ 7 ആണ് അപ്പോൾ ഇത് a b c സർക്യൂട്ടിലെ സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആയിരുന്നു സമാനമായി ഇത് ∆ കണക്റ്റഡ് ആണ് അതും ഇതേ പോലെ Zc Zb Za എന്നാണ് Y ∆ സാമ്പിൾ ഡിസി സർക്യൂട്ടിൽ നമ്മൾ അവിടെ കാണിച്ചിരുന്നു അവിടെ ഇത് റെസിസ്റ്റൻസും ഇവിടെ ഇത് ഇമ്പിടൻസുമാണ് ഇവിടെയും a യും b യും c യുമെല്ലാം മാസ്സാണ് അപ്പോൾ ഇത് ∆ കണക്റ്റഡ് ലോഡ് ആണ് ഇനി ഒരു സന്തുലിതമായ ലോഡിന് ഫേസ് ഇമ്പിടൻസ് അളവിലും ഫേസിലും തുല്യമാണ് അതിനർത്ഥം Z1 Z2 Z3 എന്നിവ ഒരേ അളവിലും ആംഗിളിലും ആണെങ്കിൽ എങ്കിലത് സന്തുലിതമാണ് അപ്പോൾ അതിനർത്ഥം ഒരു സന്തുലിതമായ Y കണക്റ്റഡ് ലോഡിന് Z1 Z2 Z3 ZY ആയിരിക്കും അത് പോലെ ഒരു സന്തുലിതമായ ∆ കണക്റ്റഡ് ലോഡ് Z a Z b Zc ZΔ നമ്മൾ സന്തുലിതമായ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നൊള്ളു ഇനി Y → ∆ പരിവർത്തനം അല്ലെങ്കിൽ ∆ → Y പരിവർത്തനം നമ്മൾ ഇത് ഡിസി സർക്യൂട്ടിൽ ചെയ്ത അതേ രീതിയിൽ ചെയ്യാം ഇവിടെ ZΔ 3 ZY അല്ലെങ്കിൽ ZY 13 ZΔ ആണ് നമ്മളിത് ഇത് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും അതിനാൽ ഞാൻ ഇത് കൂടുതൽ ചെയ്യുന്നില്ല കാരണം ഡിസി സർക്യൂട്ടിൽ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് അത് തന്നെയാണ് ഇവിടെയും അവിടെ അത് റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇത് ഇമ്പിടൻസ് ആണ് നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം Van 200 cos എന്നീ വോൾട്ടേജുകളുടെ കൂട്ടത്തിന്റെ ഫേസ് സീക്വൻസ് നിർണ്ണയിക്കുക അപ്പോൾ ഇവിടെ ഫേസർ ഡയഗ്രം വരയ്ക്കുക ഇത് റഫറൻസ് പോയിന്റാണെന്ന് അനുമാനിക്കുക അതിനാൽ Van 200 ആംഗിൾ 10o ഇവിടുത്തെ ഈ കോസൈനും അടിസ്ഥാനപരമായി sin ∆ അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഇത് sin 90o 𝛉 cos 𝛉 അല്ലെങ്കിൽ cos 90 o 𝛉 sin 𝛉 ആണ് ഇതിൽ ഒരു ആശയക്കുഴപ്പവും പാടില്ല ഇവിടെ ഇത് റഫറൻസ് ലൈനാണ് ഇനി ഇതേ പോലെ Vcn നൽകിയിട്ടുള്ളത് 110o യും Vbn 230o യുമാണ് ഇത് റഫറൻസിന് അനുസൃതമായിട്ടാണ് ഇനി a ക്കും b ക്കും c ക്കും ഇടയിലുള്ള ആംഗിൾ നോക്കുകയാണെങ്കിൽ Van നും Vbn നും ഇടയിലുള്ള ആംഗിൾ 120o ആണ് ഇനി ഈ c യും b യും നോക്കുകയാണെങ്കിൽ നമുക്കിത് സമാനമായി 120o കിട്ടും അതേ പോലെ ഇവിടെയും ഇത് 120o ആണ് ഇവിടെ സീക്വൻസ് a c b ആണ് അതിനാൽ ഈ ഫേസ് സീക്വൻസ് a c b സീക്വൻസ് ആണ് അതിനാൽ 0 നും 120 നും പുറമേ ഇത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു റഫറൻസ് എടുക്കുക അതിനു ശേഷം ഒരു ഫേസർ ഡയഗ്രം വരക്കുക പിന്നീട് ഇതുപോലെ a c b സീക്വൻസ് ലഭിക്കും ഇനി സന്തുലിതമായ Y→Y കണക്ഷൻ സന്തുലിതമായ Y കണക്റ്റഡ് സ്രോതസ്സും സന്തുലിതമായ Y കണക്റ്റഡ് ലോഡും ഇതാണ് എന്റെ Y കണക്റ്റഡ് സ്രോതസ്സെന്നും ഇതാണ് Y കണക്റ്റഡ് ലോഡുമെന്നും കരുതുക ഇവിടെ ന്യൂട്രൽ ഉണ്ട് ഇവ രണ്ടും ബന്ധിപ്പിച്ചിട്ടുമുണ്ട് ഇതിലെ ഘടകങ്ങളും ബന്ധപ്പിച്ചിട്ടുണ്ട് ഇതിലെ കറണ്ട് ന്യൂട്രലാണ് അതായത് In അതേപോലെ ഇത് Van Vbn Vcn എന്നിവയാണ് ഇത് ZY ZY ZY ആണ് ഇത് a b c യും ഇത് A B C യുമാണ് ഇതാണ് സ്രോതസ്സ് ഇത് Y കണക്റ്റഡ് ലോഡുമാണ് കാരണം ഇത് ത്രീ ഫേസ് ആണ് ഇതിലൂടെയുള്ള കറണ്ട് Ia ഇത് Ib യും Ic ന്യൂട്രലുമാണ് ഇത് In ലൂടെ പോകുന്ന ന്യൂട്രൽ കറണ്ടാണ് ഇതാണ് പ്രവാഹം ഇതാണ് സർക്യൂട്ട് ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫിഗർ 11 ആണ് ഇതേ പോലെ സ്രോതസ്സിന്റെ വശം മാത്രം വരക്കുകയാണെങ്കിൽ ഇതിൽ ന്യൂട്രലോ മറ്റുള്ളതോ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ Van ആണുള്ളത് Vab യിൽ പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് Vbc യും Vca യും ഉണ്ട് അപ്പോൾ ഇതിൽ a b c എന്നത് പോയി Van Vp ആംഗിൾ 0o അത് സന്തുലിതമാണ് Vbn Vp ആംഗിൾ 120° യും Vcn Vp ആംഗിൾ 120o യും ആണ് ഇതാണ് Van ഇതാണ് Vbn ഇതാണ് Vcn ഇനി ഇതിൽ k v l പ്രയോഗിക്കുകയാണെങ്കിൽ Vab ഇങ്ങനെയായിരിക്കും നീങ്ങുന്നത് ഇതിന്റെ ഇൻസ്റ്റന്റീനിയസ് പൊളാരിറ്റി Vab Vbn Van 0 എന്നായിരിക്കും അത് Vab Van Vbn അതായത് a യിൽ നിന്ന് b യിലേക്കുള്ള ഈ വോൾട്ടേജ് നമ്മൾ ലൈൻ ടു ലൈൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു കാരണം ഇത് ലൈനാണ് ഇതും ലൈനാണ് അതിനാൽ ലൈൻ ടു ലൈൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ഇനി Van Vbn Vcn ആണെങ്കിൽ ഇത് ലൈൻ ടു ന്യൂട്രൽ ആണ് അതായത് ഫേസ് വോൾട്ടേജാണ് Vab Vbc Vca എന്നിവ ലൈൻ ടു ലൈൻ വോൾട്ടേജാണ് ഇതേ പോലെ മറ്റുള്ള രണ്ടെണ്ണത്തിലും kvl പ്രയോഗിക്കാം അപ്പോൾ ഇവിടെ ഈ കേസിൽ Vab Van Vbn എന്നാണ് ഇതിൽ ഈ Vbn എന്നതിനെ Vnb എന്നാക്കാം അതുകൊണ്ടാണ് ഇവിടെ Vbn Vnb വന്നത് വഴി ഇത് പോസിറ്റീവായത് ഇനി അഥവാ Vbn ഈ വശത്താണെന്ന് കരുതുക ഇതാണ് പോയിന്റെന്നും വെക്കുക അപ്പോൾ ഇതിന്റെ എതിർ വശത്തുള്ളത് Vnb ആയിരിക്കും അത് കൊണ്ടാണ് ഇത് Vnb ആയത് ഇനി സമാനമായി Van Vp ആംഗിൾ 0o എന്നും അതേ പോലെ Vbn എന്നത് Vp ആംഗിൾ 120 o എന്നായും പകരം ചേർക്കുകയാണ് ഇതേ പോലെ ചെയ്യുകയാണെങ്കിൽ Vab Vp ആംഗിൾ 0 എന്നത് cos 0 അതേ പോലെ ഇത് cos 120 j sin 120o എന്നായിരിക്കും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 12 j √ 32 ഇത് വീണ്ടും ലഘൂകരിക്കുകയാണെങ്കിൽ √3 Vp ആംഗിൾ 30o എന്നാവും അതിനാൽ Vab √3 Vp ആംഗിൾ 30o ആണ് Vp എന്നത് ഫേസ് വോൾട്ടേജാണ് Vab എന്നത് ലൈൻ വോൾട്ടേജുമാണ് അതിനാൽ ലൈൻ വോൾട്ടേജ് എന്നത് √3 തവണ ഫേസ് വോൾട്ടേജാണ് ഇനി ഫേസർ ഡയഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് Van ഇതാണ് Vbn ഇതാണ് Vcn അപ്പോൾ ഇത് 120 o അകലെയാണ് അപ്പോൾ ഇത് Vbn ആണ് അപ്പോൾ ഇതിന്റെ 180o അപ്പുറത്തുള്ള വശമെടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും Vnb Vnb യുടെ അളവ് Vp ആണ് Van അളവും Vp ആണ് ഇതിന്റെ വോൾട്ടേജ് അളവ് Vp ആണ് ഇത് ഇതിന് സമാന്തരമാണ് ഇതും Vp ആണ് അത് കൊണ്ടാണ് ഇവിടെ ഡാഷ് ലൈൻ വരച്ചിട്ടുള്ളത് ഇതായിരിക്കും നിങ്ങളുടെ Vab അതിനാൽ Vab Van Vnb ആണ് ഇനി ഇതിന്റെ പ്രൊജക്ഷൻ എടുക്കുക ഇത് Vp ആണ് ഇതും Vp ആണ് അപ്പോൾ ഇത് Vp cos 30o കാരണം ഈ ആംഗിൾ 30o ആണ് ഈ ആംഗിളും 30o ആണ് അതിനാൽ ഇതും Vp cos 30o അപ്പോൾ ഇത് 2 Vp cos 30o ആയിരിക്കും അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ Vp cos 30o ആണ് അത്പോലെ ഇവിടെ നിന്ന് ഇവിടെ വരെയും Vp cos 30o ആണ് അപ്പോൾ ഇത് 2 Vp 30o അത് കൊണ്ട് |Vab| √3 Vp അതിനർത്ഥം ലൈൻ ടു ലൈൻ വോൾട്ടേജിന്റെ അളവ് √3 തവണ ഫേസ് വോൾട്ടേജിന് തുല്യമായിരിക്കും ഇതേ പോലെ ഈ Vcn ന് നമുക്ക് 120o ഫേസ് ഷിഫ്റ്റ് ലഭിക്കും അപ്പോൾ ഇത് ഇതേ പോലെ Vab ആണെങ്കിൽ Vbc ഇവിടെ വരും കാരണം ഈ ആംഗിൾ 120o ആണ് അതിനാൽ Vbc Van ൽ നിന്ന് 90o ലാഗ് ചെയ്യുന്നു കാരണം ഈ ആംഗിൾ 90o ആണ് ഇവിടെ നമ്മൾ ചെയ്തത് പോലെ Vab √3 Vp ആംഗിൾ 30o ആണ് ഇത് ഈ ഫേസർ ബന്ധം ഉപയോഗിച്ചാണ് അതേ പോലെ ഇത് ഫേസർ ഡയഗ്രത്തിൽ നിന്നുമാണ് രണ്ടും തുല്യമാണ് ഇവിടെ ഈ ആംഗിൾ 60o രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അതേ പോലെ 30o രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായി Vbc Vbn Vcn √3 Vp ആംഗിൾ 90o ഇത് മുമ്പത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ കിട്ടും അതേ പോലെ Vca Vcn Van √3 Vp ആംഗിൾ 210o എന്ന് കിട്ടും ഒന്ന് ചെയ്യേണ്ടതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതേ പോലെ ഇതും നിങ്ങൾ ചെയ്യുക ഇനി ഇതിന്റെ മൊത്തം ഫേസർ ഡയഗ്രം വരക്കുകയാണെങ്കിൽ ഇതിന്റെ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും നോക്കിയാൽ Vab Vbc Vca എന്നിവയുടെ ഫേസ് ഡിഫറൻസ് 120o ആയിരിക്കും ഇത് Vab യും ഇത് Vbc യും ഇത് Vca യും ആണ് അതിനാൽ ab യിൽ നിന്ന് bc യിലേക്ക് 120o ആണ് bc യിൽ നിന്ന് ca യിലേക്ക് 120o ആണ് ca യിൽ നിന്ന് ab യിലേക്കും 120o ആണ് ഇനി Vbc യും Van ഉം തമ്മിലുള്ള ആംഗിൾ 90o ആണ് എല്ലാ ആംഗിളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ പോലെ Vbn നും Vbc യും തമ്മിലുള്ള ആംഗിൾ 30o ആണ് വീണ്ടും Vca യും Vcn നും തമ്മിലുള്ള ആംഗിൾ 30o ആണ് അപ്പോൾ ab യും an നും 30o ആണ് bc യും bn നും 30o ആണ് അതേ പോലെ ca യും cn നും തമ്മിലുള്ളത് 30o ആണ് അതിനാൽ Vab Van നെ 30o മുന്നിട്ട് നിൽക്കുന്നു Vbn സമാനമായി Vbc യെ 30o മുന്നിട്ട് നിൽക്കുന്നു Vca Vcn നെ 30o മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്ത ഫേസർ ഡയഗ്രം വരയ്ക്കുക അപ്പോൾ ഇത് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് ഇത് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജാണ് ഇതിനെ നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ലൈൻ ടു ലൈൻ വോൾട്ടേജ് √3 തവണ ഫേസ് വോൾട്ടേജ് ആണ് ലൈൻ ടു ലൈൻ വോൾട്ടേജിനെ ചിലപ്പോൾ നമ്മൾ VL എന്നും ചില സമയത്ത് VLL എന്നും എഴുതാറുണ്ട് ഇവിടെ നമ്മൾ VL എന്നാണ് ഉപയോഗിക്കുന്നത് VL |Vab| |Vbc| |Vca| ആണ് ഇത് സന്തുലിതമാണ് ഇതേ പോലെ ലൈൻ ടു ലൈൻ കറണ്ട് നോക്കുകയാണെങ്കിൽ IL |Ia| |Ib| |Ic| |Ip| അതായത് ഈ ലൈൻ കറണ്ട് ഫേസ് കറണ്ടിന് തുല്യമാണ് എന്തുകൊണ്ടാണത് അതിന് നമ്മൾ ഈ ഡയഗ്രത്തിലേക്ക് വരാം അതായത് Y കണക്റ്റഡ് ലോഡും Y കണക്റ്റഡ് സ്രോതസ്സും ഉള്ളതിന്റെ അപ്പോൾ ഈ കറണ്ട് ലൈനിലൂടെയാണ് പോകുന്നത് അതായത് ഇത് ലൈൻ കറണ്ട് ആണ് ഇത് AN ഉം ഇത് BN ഉം ഇത് CN ഉം ആണ് ഇത് Y കണക്റ്റഡ് ലോഡിന്റെ ഫേസ് ഇമ്പിടാൻസാണ് ഒരേ കറണ്ടാണ് ഇതിലൂടെയും ഇതിലൂടെയും പോകുന്നത് Ib ക്കും Ic ക്കും IL നും ഇത് തന്നെയാണ് ഇനി KCL പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് Ia Ib Ic In IL അപ്പോൾ ഒരേ കറണ്ട് ആണ് ഇതിലൂടെ ഒഴുകുന്നത് ഇനി ഇതാണ് ലൈൻ കറണ്ട് ഈ a A ലൈനാണ് b B ലൈനാണ് c C ലൈനാണ് അപ്പോൾ ഇത് ലൈൻ കറണ്ട് ആണ് ഇതേ കറണ്ട് തന്നെയാണ് ഫേസ് ഇമ്പിടൻസ് A to N ലേക്കും വരുന്നത് അപ്പോൾ അത് കൊണ്ടാണ് ലൈൻ കറണ്ട് ഫേസ് കറണ്ടിന് തുല്യമാവുന്നത് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ഈ കേസിൽ ലൈൻ കറണ്ടിന്റെ അളവ് ഫേസ് കറണ്ടിന് തുല്യമാണ് അതേ പോലെ ലൈൻ വോൾട്ടേജ് Vab Vbc Vca എന്നിവയെല്ലാം തുല്യമാണ് ലൈൻ കറണ്ട് IL |Ia| |Ib| |Ic| |Ip| ആണ് ഇനി ലൈൻ വോൾട്ടേജുകൾ അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ഫേസ് വോൾട്ടേജുകളെ 30o മുന്നിട്ട് നിൽക്കുന്നു അതും നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്താനാവുന്നതാണ് ഇനി ഫിഗർ 10 ൽ ഇവിടെ പ്രവേശിക്കുന്ന കറണ്ട് Ia ആണ് ഇവിടെയുള്ള വോൾട്ടേജ് Van ആണ് അതായത് Ia Van ZY ഇനി Van VAN അപ്പോൾ ഇത് Ia Van ZY VAN ZY ഇതേ പോലെ നമുക്ക് Ib യും Ic യും ഉണ്ട് അതിലേക്ക് നമ്മൾ മടങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ 10 ൽ നിന്ന് Ia Van ZY Vp ആംഗിൾ 0 oZY Vp ZY എന്ന് കിട്ടും സമാനമായി Ib Vbn ZY Vp ആംഗിൾ 120o ZY ഇവിടെ Vp ZY Ia ആണ് അതിനാൽ Ib Ia ആംഗിൾ 120o സമാനമായി Ic Vcn ZY Vp ആംഗിൾ 120o ZY ഇവിടെ Vp ZY Ia ആണ് അതിനാൽ Ia ആംഗിൾ 120o അതിനാൽ Ia Ib Ic Ia Ia ആംഗിൾ 120o Ia ആംഗിൾ 120o 0 ഇനി നമ്മൾ KCL പ്രയോഗിക്കുകയാണെങ്കിൽ In Ia Ib Ic 0 പക്ഷെ Ia Ib Ic 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനാൽ ബാക്കിയുള്ളത് In 0 ആണ് അതിനാൽ ന്യൂട്രലിൽ ഒരു കറണ്ടും ഒഴുകുന്നില്ല അപ്പോൾ ഇതാണ് ത്രീ ഫേസ് സർക്യൂട്ടിന്റെ ലളിതമായ തത്വം അപ്പോൾ ഇതാണ് ഇതിന്റെ സാരാംശം ഇത് കണക്ഷൻ Y Y ആണ് ഇവീടെ ഫേസ് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട് Y Y ൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ലൈൻ വോൾട്ടേജിലും കറണ്ടിലും VabVbc എല്ലാം തന്നിട്ടുണ്ട് അത് പോലെ Ia Ib Ic എല്ലാം തന്നിട്ടുണ്ട് അതേ പോലെ Van Vbn Vcn തന്നിട്ടുണ്ട് അപ്പോൾ Y Y കണക്ഷനിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് നമുക്ക് വീണ്ടും കാണാം വളരെയധികം നന്ദി